ഞങ്ങൾ ഇപ്പോൾ മറ്റൊരു ഡിവൈഡ് ആൻഡ് കോൻക്യുർ അൽഗോരിതം നോക്കുന്നു ഇതാണ് ജോമെട്രിക് പ്രശ്നം അവയിൽ ഏറ്റവും അടുത്ത ജോഡി പോയിന്റുകൾ കണക്കാക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു കൂട്ടം പോയിന്റുകൾ അതിനാൽ കൂടുതൽ കാര്യക്ഷമമായ അൽഗോരിതങ്ങളുടെ ആവശ്യകതയെ പ്രചോദിപ്പിക്കുന്നതിനായി ഈ പ്രഭാഷണങ്ങളുടെ തുടക്കത്തിൽ സ്ക്രീനിൽ നിരവധി ഒബ്ജക്റ്റുകളുണ്ടെങ്കിൽ ഏത് സമയത്തും നിങ്ങൾക്ക് അത് കണ്ടെത്താൻ താൽപ്പര്യമുണ്ടെങ്കിൽ വീഡിയോ ഗെയിമിന്റെ ഉദാഹരണം പരിഗണിക്കുക അവയിൽ ഏറ്റവും അടുത്തുള്ള ജോഡി വസ്തുക്കൾ അതിനാൽ ഇതിനായി വീണ്ടും ഒരു നിഷ്കളങ്കമായ അൽഗോരിതം ഈ n വസ്തുക്കളുടെ ഓരോ ജോഡി തമ്മിലുള്ള ദൂരം വ്യക്തമായി കണക്കുകൂട്ടാൻ കഴിയും അത് ഒരു ഓർഡർ n സ്ക്വയേർഡ് അൽഗോരിതം ആയിരിക്കണം അതിനാൽ നമ്മൾ കാണാൻ പോകുന്നത് നമുക്ക് യഥാർത്ഥത്തിൽ വിഭജിക്കാനും ജയിക്കാനും ഈ പ്രശ്നത്തിനായി ഒരു ഓർഡർ n log n അൽഗോരിതം നിർമ്മിക്കാനും കഴിയും എന്നതാണ് അതിനാൽ ഞങ്ങൾ രണ്ട് അളവുകളിലാണ് പോയിന്റുകൾ നോക്കുന്നത് അതിനാൽ ഓരോ പോയിന്റും ഒരു xy കോർഡിനേറ്റ് xp yp ആണ് നൽകുന്നത് ഞങ്ങൾ പൈതഗോറസ് ഉപയോഗിച്ച ഫോർമുല നൽകിയ ദൂരമാണ് സാധാരണ യൂട്ടിലിറ്റിയും ചലനവും ഉപയോഗിക്കുന്നത് അതായത് തമ്മിലുള്ള ദൂരം p 1 ഉം p 2 ഉം x 2 മൈനസ് x 1 വോൾ സ്ക്വരെ കൂടാതെ y 2 മൈനസ് y 1 വോൾ സ്ക്വരെ സ്ക്വരെറൂട്ട് ആണ് അതിനാൽ ഒരു ജോടി പോയിന്റുകൾ തമ്മിലുള്ള ദൂരം കണക്കാക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നപ്പോഴെല്ലാം നമുക്ക് ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു വിദൂര ഫോർമുല ഉണ്ടെന്ന് നിങ്ങൾ ഉഹിക്കുക അതിനാൽ ഞങ്ങളുടെ ടാർഗെറ്റിന് ഒരു കൂട്ടം n പോയിന്റുകൾ നൽകിയിരിക്കുന്നു p 1 മുതൽ p n വരെ അവയിൽ ഏറ്റവും അടുത്ത ജോഡി കണ്ടെത്തുക ഇത് അൽഗോരിതം വിശകലനത്തിന് സൌകര്യപ്രദമായിരിക്കുംഈ സെറ്റിലെ രണ്ട് പോയിന്റുകൾക്കും ഒരേ x അല്ലെങ്കിൽ y കോർഡിനേറ്റ് ഇല്ലെന്ന് ഞങ്ങൾ നിർദ്ദേശിക്കാൻ പോകുന്നു അതിനാൽ ഈ n x കോർഡിനേറ്റുകളിൽ ഓരോ x കോർഡിനേറ്റും വ്യത്യസ്തമാണ് ഈ n കോർഡിനേറ്റുകൾക്കിടയിലുള്ള ഓരോ y കോർഡിനേറ്റും വ്യത്യസ്തമാണ് ഇപ്പോൾ ഞങ്ങൾ കാണിക്കാൻ പോകുന്ന അൽഗോരിതം ഉപയോഗിച്ച് ഇത് വിപുലീകരിക്കാൻ കഴിയും ഈ അനുമാനം ശരിയല്ലാത്ത കേസ് കൈകാര്യം ചെയ്യാൻ ഇത് വിപുലീകരിക്കാം പക്ഷേ അത് അൽഗോരിതം മനസ്സിലാക്കുന്നത് അനാവശ്യമായി സങ്കീർണ്ണമാക്കും അതിനാൽ ഓരോ പോയിന്റും വ്യത്യസ്ത x കോർഡിനേറ്റിലും മറ്റെല്ലാ പോയിന്റുകളിൽ നിന്നും വ്യത്യസ്തമായ y കോർഡിനേറ്റിലുമുള്ള പ്രശ്നത്തിന്റെ ഈ പ്രത്യേക കേസ് ഞങ്ങൾ പരിഹരിക്കുന്നുവെന്ന് നമുക്ക് അനുമാനിക്കാം അതിനാൽ നമ്മൾ കണ്ടതുപോലെ എല്ലാ ജോഡികളും പരീക്ഷിക്കുക p i p j ന്റെ d കണക്കുകൂട്ടുക തുടർന്ന് ഏറ്റവും കുറഞ്ഞ ദൂരം റിപ്പോർട്ട് ചെയ്യുക അതിനാൽ ഇത് ഒരു ഓർഡർ n സ്ക്വയേർഡ് അൽഗോരിതം ആയിരിക്കും അതിനാൽ നമുക്ക് ഒരേ ഒരു ഡൈമൻഷണൽ പോയിന്റുകൾ ഉണ്ടെങ്കിൽ അതേ പ്രശ്നം ആദ്യം നോക്കാം നമുക്ക് ഒരു ഡൈമൻഷണൽ പോയിന്റുകൾ ഉണ്ടെങ്കിൽ ഈ പോയിന്റുകളെല്ലാം ലൈനിനൊപ്പം കിടക്കുന്നു ഇത് നമുക്ക് x ആക്സിസ് എന്ന് അനുമാനിക്കാം അതിനാൽ ഞങ്ങൾക്ക് ഒരു കൂട്ടം പോയിന്റുകളുണ്ട് ഏറ്റവും അടുത്തുള്ള പോയിന്റ് കണ്ടെത്താൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു അതിനാൽ നമുക്ക് ചെയ്യാനാകുന്നത് ആദ്യം അവയെ ക്രമീകരിക്കുക എന്നതാണ് അതിനാൽ x കോർഡിനേറ്റിന്റെ വർദ്ധിച്ചുവരുന്ന ക്രമത്തിൽ നമുക്ക് പോയിന്റുകൾ ഉണ്ടാകും തുടർന്ന് നമുക്ക് ആവശ്യമുള്ള ദൂരങ്ങൾ രണ്ട് അടുത്തുള്ള പോയിന്റുകൾ തമ്മിലുള്ള ദൂരമാണെന്ന് കാണാൻ എളുപ്പമാണ് കാരണം ഞാൻ ഒരു പോയിന്റ് നോക്കിയാൽ അതിൽ ഒന്നുകിൽ ഇടതുവശവും അതിൽ ഒന്ന് വലത് ആണെങ്കിൽ ഏറ്റവും അടുത്തുള്ള പോയിന്റ് അതിനാൽ ഞാൻ ഈ x 2 മൈനസ് x 1 ദൂരം സ്കാൻ ചെയ്യേണ്ടതുണ്ട് തുടർന്ന് x 3 മൈനസ് x 2 അതിനാൽ എനിക്ക് ഈ n മൈനസ് 1 ദൂരം സ്കാൻ ചെയ്യേണ്ടതുണ്ട് തുടർന്ന് ഈ രണ്ട് പോയിന്റുകൾ തമ്മിലുള്ള ഏറ്റവും ചെറിയ വിടവ് ട്രാക്ക് ചെയ്യുക അത് എനിക്ക് തരും മൊത്തത്തിലുള്ള ജോഡി n പോയിന്റുകളുടെ ഏറ്റവും ചെറിയ ദൂരം അതിനാൽ ഇവിടെ അൽഗോരിതം n log n ആണ് കാരണം x കോർഡിനേറ്റിലെ പോയിന്റുകൾ അടുക്കാൻ n ലോഗ് n സമയമെടുക്കും അതിനുശേഷം മിനിമം കണ്ടെത്തുന്നത് വളരെ എളുപ്പമാണ് അതിനാൽ ഒരു ഡൈമെൻഷനിൽ ഈ പ്രശ്നം പരിഹരിക്കാൻ വളരെ എളുപ്പമാണ് രണ്ട് ഡൈമെൻഷനിൽ അത് പരിഹരിക്കുക എന്നതാണ് വെല്ലുവിളി അതിനാൽ നമ്മൾ ഡിവൈഡ് ആൻഡ് കോൻക്യുർ ചെയുവാൻ പോകുകയാണെങ്കിൽ അതിന് രണ്ട് ഡൈമെൻഷൻ ഉണ്ട് പോയിന്റുകളെ രണ്ട് ഗ്രൂപ്പുകളായി വേർതിരിക്കുന്നതിനുള്ള ഒരു മാർഗ്ഗം ഞങ്ങൾക്ക് ആവശ്യമാണ് ഏകദേശം തുല്യ വലുപ്പം അല്ലെങ്കിൽ പ്രതീക്ഷിതമായി തുല്യമായ വലിപ്പം അതിനാൽ ഒരു സ്വാഭാവിക മാർഗ്ഗം ഇതാണ് അവരുടെ സ്ഥാനങ്ങളെ അടിസ്ഥാനമാക്കി അവയെ വേർതിരിക്കുക എന്നതാണ് ജോമെട്രിക് പ്രശ്നം അതിനാൽ ഇത് എന്റെ മൊത്തത്തിലുള്ള ഒരു കൂട്ടം പോയിന്റുകളാണ് എന്നിട്ട് ചില സ്വാഭാവിക രേഖകൾ വരയ്ക്കുകയും പകുതി പോയിന്റുകൾ ഇവിടെയും പകുതി പോയിന്റുകൾ ഉണ്ടെന്നും പറയുകയും ചെയ്യുന്നത് സ്വാഭാവികമാണ് അതിനാൽ ഞങ്ങൾ ഇത് ഒരു വെർട്ടിക്കൽ ലൈൻ ഉപയോഗിച്ച് ചെയ്യും അതിനാൽ ഞങ്ങൾ ഈ സെറ്റ് ഇതുപോലുള്ള ചില ഏകപക്ഷീയ ലൈൻകളാൽ വിഭജിക്കില്ല മറിച്ച് ഞങ്ങൾ അതിനെ വെർട്ടിക്കൽ ലൈൻ ഉപയോഗിച്ച് വിഭജിക്കും അതിനാൽ എവിടെയെങ്കിലും പാതിദൂരമല്ലാത്തതിനാൽ പോയിന്റുകൾ അസമമായ രീതിയിൽ ചിതറിക്കിടക്കുന്നതിനാൽ ഞങ്ങൾ അതിനെ വിഭജിക്കുംഅതിനാൽ ഇടതുവശത്തെ വരയ്ക്കും വലതുവശത്തേക്കും ഒരേ പോയിന്റുകളുടെ അതേ എണ്ണം പോയിന്റുകൾ ഉണ്ട് അതിനാൽ ഇപ്പോൾ നമ്മൾ ഡിവൈഡ് ആൻഡ് കോൻക്യുർ ചെയ്യുന്നതിനാൽ നമ്മൾ ചെയ്യേണ്ടത് ഇടതുവശത്തുള്ള പോയിന്റുകൾക്കിടയിലെ ഏറ്റവും ചെറിയ ദൂരം ഞങ്ങൾ കണക്കുകൂട്ടും പ്രത്യേകമായി വലതുവശത്ത് നിന്ന് ഏറ്റവും ചെറിയ ദൂരം ഞങ്ങൾ കണക്കാക്കും പക്ഷേ ഇടതുവശത്തുള്ള പോയിന്റുകളും വലതുവശത്തുള്ള പോയിന്റുകളും തമ്മിലുള്ള ദൂരത്തെക്കുറിച്ച് ഇത് ഞങ്ങളോട് ഒന്നും പറയുന്നില്ല മാത്രമല്ല അവ അതിരുകൾക്കപ്പുറം പരസ്പരം വളരെ അടുത്തായിരിക്കാം അതിനാൽ എനിക്ക് ഇവിടെ നാല് പോയിന്റുകളും നാല് പോയിന്റുകളും ചേർക്കാം കൂടാതെ ഈ കറുത്ത ലൈൻ വ്യാപിപ്പിക്കുന്ന ഒരു ജോടി പോയിന്റുകൾ എനിക്ക് ചേർക്കാനാകും അത് യഥാർത്ഥത്തിൽ പരസ്പരം അടുക്കുന്നു തുടർന്ന് ഏതെങ്കിലും രണ്ട് പോയിന്റുകൾ ഇടത്തേക്ക് അല്ലെങ്കിൽ രണ്ട് പോയിന്റ് വലത്തേക്ക് അതിനാൽ വേർതിരിക്കുന്ന ലൈൻലുടനീളം ഞങ്ങൾ ഏറ്റവും അടുത്തുള്ള ജോഡികളെ കണക്കാക്കേണ്ടതുണ്ട് അതിനാൽ ഇത് എങ്ങനെ ചെയ്യാമെന്ന് നമുക്ക് അൽപ്പം അടുത്തറിയാം അതിനാൽ ഈ കാര്യം ആവർത്തിച്ച് ചെയ്യുന്നതിനുമുമ്പ് ഞങ്ങൾ അടുത്ത ഘട്ടം നടത്തും ഒരു പോയിന്റ് P നൽകുമ്പോൾ ഞങ്ങൾ പോയിന്റുകൾ കണക്കുകൂട്ടും പോയിന്റുകളുടെ ഗണം ഞങ്ങൾ രണ്ട് തരം ഓർഡറുകൾ കണക്കാക്കും അതിനാൽ ഞങ്ങൾ ആദ്യം ഈ പോയിന്റുകൾ ഇടത് നിന്ന് വലത്തേക്ക് x കോർഡിനേറ്റ് ഉപയോഗിച്ച് സ്കാൻ ചെയ്യും ഞങ്ങൾ ഈ ക്രമത്തിൽ ലിസ്റ്റുചെയ്ത് അതിനെ P x എന്ന് വിളിക്കും തുടർന്ന് ഞങ്ങൾ ഇത് സ്കാൻ ചെയ്യും P ലിസ്റ്റിൽ നിന്ന് അതിനാൽ ഞങ്ങൾ y കോർഡിനേറ്റിൽ അടുക്കുകയും ഇതിനെ Py എന്ന് വിളിക്കുകയും ചെയ്യും അതിനാൽ P യിൽ നിന്ന് ഞങ്ങൾ രണ്ട് ലിസ്റ്റുകൾ നിർമ്മിക്കും ഒന്ന് x കൊണ്ട് വേർതിരിച്ചതും മറ്റൊന്ന് y പ്രകാരം അടുക്കുന്നതും അതിനാൽ ഞങ്ങൾ ഇത് തീർച്ചയായും ചെയ്തിട്ടുണ്ടെന്ന് ഞങ്ങൾ അനുമാനിക്കും തുടക്കത്തിൽ തന്നെ ക്രമത്തിൽ n log n ക്രമത്തിൽ നമുക്കറിയാവുന്നതുപോലെ ഇത് ചെയ്യാൻ കഴിയും ഇപ്പോൾ അടുത്ത ഘട്ടം ഈ ആവർത്തന കോൾ ചെയ്യുക എന്നതാണ് അതിനാൽ ഞങ്ങൾ ആവർത്തന കോൾ ചെയ്യുമ്പോൾ ഞങ്ങൾക്ക് പി x x കോർഡിനേറ്റ് ഉപയോഗിച്ച് അടുക്കുക നമ്മൾ വരയ്ക്കേണ്ട രേഖയാണ് പി x നെ വേർതിരിക്കുന്നതെന്ന് നമുക്കറിയാം രണ്ട് തുല്യ ഭാഗങ്ങളായി അതിനാൽ നമ്മൾ Px ന്റെ മിഡിപ്പോയ്ന്റ്ലേക്ക് പോയി x പോയിൻറിൽ നിന്ന് അടുത്ത മിഡിപ്പോയ്ന്റ്നെ വേർതിരിക്കുന്ന x കോർഡിനേറ്റിൽ ഒരു ലൈൻ വരയ്ക്കണം അതിനാൽ നമുക്ക് P x അറിയുമ്പോൾ ഈ ലൈൻ സ്ഥാനം ഉറപ്പിക്കപ്പെടുന്നു ഏത് രണ്ട് പോയിന്റുകൾക്കിടയിൽ നമുക്ക് അറിയാമെന്ന് അർത്ഥം ശരിയാക്കുക ഓർക്കുക ഒരേ x കോർഡിനേറ്റിൽ രണ്ട് പോയിന്റുകളില്ല ഒരേ y കോർഡിനേറ്റിൽ രണ്ട് പോയിന്റുകളില്ലെന്ന് ഞങ്ങൾ അനുമാനിക്കുന്നു അതിനാൽ ഞാൻ മീഡിയൻ വാല്യൂ x ന്റെ മിഡ്ഡിൽ വാല്യൂ തിരയുകയാണെങ്കിൽ ഞാൻ അവിടെ ഒരു ലൈൻ വരയ്ക്കുന്നു ഇപ്പോൾ അവർ അനുമാനിക്കുന്ന രണ്ട് തുല്യ ഭാഗങ്ങളായി ഞാൻ വെവ്വേറെ സംശയിക്കുന്നു കാരണം ഞാൻ P x ന്റെ ഈ പ്രാപ്തമായ മിഡ് പോയിന്റ് ചെയ്തു അതിനാൽ എനിക്ക് രണ്ട് സെറ്റ് Q R എന്നിവയുണ്ട് എന്നാൽ ഈ ആവർത്തനം തുടരുന്നതിന് Q x y എന്നീ രണ്ടിലും Q ക്രമീകരിച്ചിട്ടുണ്ടെന്ന് ഞാൻ അനുമാനിക്കേണ്ടതുണ്ട് അതിനാൽ R ഈ ഓരോ പ്രശ്നങ്ങളും x പ്രകാരം അടുക്കിയിരിക്കുന്ന പോയിന്റുകളുടെ സമാനമായ ക്രമം y പ്രകാരം അടുക്കുന്നു അതിനാൽ ഞാൻ Q x Q y R x R y എന്നിവ കാര്യക്ഷമമായി കണക്കാക്കേണ്ടതുണ്ട് Q x Q y എന്നിവ എളുപ്പമാണ് കാരണം ഈ മുഴുവൻ കാര്യവും P x ആയിരുന്നു തുടർന്ന് ഞങ്ങൾ ഈ കാര്യം മിഡ് പോയിന്റ് വിഭജിച്ചു അതിനാൽ മിഡ് പോയിന്റ്ന്റെ ഇടതുവശത്തുള്ള എല്ലാം Q x ഉം മിഡ് പോയിന്റ്ന്റെ വലതുവശത്തുള്ള എല്ലാം R x ഉം ആണ് അതിനാൽ P x ന്റെ ഒരു സ്കാനിൽ ഞാൻ പകുതി ദൂരം വരെ പോയി ഞാൻ എല്ലാം Q x ൽ ഇട്ടു എന്നിട്ട് പകുതി വഴിയിൽ എല്ലാം R x lambda ൽ വെച്ചു ഇപ്പോൾ y യുടെ കാര്യമോ ഇപ്പോൾ y ഞാൻ മുകളിലേക്ക് പോകുമ്പോൾ പ്രശ്നം ഈ രണ്ട് പോയിന്റുകളും Q y യിലാണ് അപ്പോൾ ഈ പോയിന്റ് R y യിലേക്ക് പോകുന്നു കാരണം P y യിലെ മൊത്തത്തിലുള്ള സ്കീമിൽ ഇവയെല്ലാം y കോർഡിനേറ്റ് ആഗോളമായി ലിസ്റ്റുചെയ്തിരിക്കുന്നു അതിനാൽ ഞാൻ ഇത് R ലേക്ക് മാറ്റണം അപ്പോൾ ഞാൻ ഇത് തിരികെ നൽകണം അതിനാൽ അടുത്തത് വീണ്ടും R നിങ്ങൾ ഇത് എങ്ങനെ ഉപയോഗിക്കുന്നു അടുത്തത് Q ആണ് അതിനാൽ ഞാൻ പോയിന്റ് ഉയരുമ്പോൾ Q y ചിലത് R y എന്നിവയിലേക്ക് പോകുന്നു ഇപ്പോൾ ഇത് കൂടുതൽ തവണ പോകാതെ ഞാൻ എങ്ങനെ നിർണ്ണയിക്കും അതിനാൽ പ്രധാന കാര്യം x ന്റെ ഈ വിഭജനം നടത്തിയ ശേഷം ഈ വിഭജന രേഖ ഞങ്ങൾ ശ്രദ്ധിക്കുന്നു അതിനാൽ ഏത് x കോർഡിനേറ്റാണ് Q നെ R ൽ നിന്ന് വേർതിരിക്കുന്നതെന്ന് നമുക്കറിയാം അതിനാൽ ഞങ്ങൾ P yയിലൂടെ കടന്നുപോകുമ്പോൾ ഞങ്ങൾ ഓരോ പോയിന്റും നോക്കും x കോർഡിനേറ്റ് ഈ മിഡിപ്പോയ്ന്റ്നേക്കാൾ കുറവാണെങ്കിൽ നമുക്ക് ഇതിനെ x Q എന്ന് വിളിക്കാം ഇത് x Q ൽ കുറവാണെങ്കിൽ ഞങ്ങൾ അതിനെ Q y ലേക്ക് തള്ളിവിടുന്നു ഇത് x Q നേക്കാൾ വലുതാണെങ്കിൽ ഞങ്ങൾ അതിനെ R y യിലേക്ക് തള്ളിവിടുന്നു കാരണം ഇത് യഥാർത്ഥത്തിൽ അടുക്കിയിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ Q y R y എന്നിവയും ക്രമീകരിച്ച ക്രമത്തിലാണ് നിർമ്മിക്കുന്നത് അതിനാൽ P y സ്കാൻ ചെയ്യുന്നവർക്ക് നിങ്ങൾക്ക് Q y R y എന്നിവ ലഭിക്കും അതിനാൽ ലീനിയർ സമയത്ത് നമുക്ക് നൽകിയിരിക്കുന്ന അടുക്കിയിരിക്കുന്ന ലിസ്റ്റ് P x P y എന്നിവ എടുത്ത് വേർതിരിച്ച പട്ടികയിൽ Q x Q y ഇടത് പകുതി R x R y എന്നിവയ്ക്ക് വലത് പകുതിയിൽ വെവ്വേറെ സംശയിക്കാം അതിനാൽ ഇപ്പോൾ ഞങ്ങളുടെ അൽഗോരിതം ഏറ്റവും അടുത്ത ജോഡി P x P y എന്ന് വിളിക്കുമ്പോൾ അത് ആവർത്തിച്ച് അടുത്ത ജോഡിയായ Q x Q y R x R y എന്നിവ ഇടത്തേയ്ക്കും വലത്തേയ്ക്കും വിഭജിക്കും അതിനാൽ ഞങ്ങൾ ഇത് പതിവുപോലെ പരിഹരിക്കുമെന്ന് നിങ്ങൾക്ക് പതിവുപോലെ അനുമാനിക്കാം ഞങ്ങൾക്ക് അവിടെ ഏറ്റവും അടുത്ത ദൂരം ലഭിക്കും ഇപ്പോൾ അവ എങ്ങനെ സംയോജിപ്പിക്കാം ഇടവേളയിൽ അകലുന്ന ഈ പോയിന്റുകൾ എങ്ങനെ പരിപാലിക്കണം രണ്ട് ഭാഗങ്ങളെ വേർതിരിക്കുന്ന വരി എന്നിവയെക്കുറിച്ച് നമ്മൾ വിഷമിക്കേണ്ടതുണ്ട് അതിനാൽ Q ലെ എല്ലാ പോയിന്റുകളിലും ഇടത് വശത്ത് ഞങ്ങൾ ഈ പ്രശ്നം പരിഹരിക്കുകയാണെങ്കിൽ d Q ദൂരമുള്ള ഏറ്റവും അടുത്തുള്ള ജോഡിയായി ചില ജോഡി പോയിന്റുകൾ ഞാൻ തിരിച്ചറിയും ഇപ്പോൾ സമാനമായി ഞാൻ പ്രശ്നം ശരിയായി പരിഹരിക്കുകയാണെങ്കിൽ കുറച്ച് ജോഡി പോയിന്റുകൾ d R ദൂരമുള്ള വലതുപക്ഷത്തിന്റെ ഏറ്റവും കുറഞ്ഞതായി ഞാൻ തിരിച്ചറിയും അതിനാൽ ഇപ്പോൾ ഞങ്ങൾക്ക് ഈ ചെറിയതോ ഈ രണ്ടോ ആണ് താൽപ്പര്യമുള്ളത് കാരണം ഇവ രണ്ടും ചെറുതാണ് ഇത് മൊത്തം മിനിമം ദൂരത്തിനുള്ള ഒരു സ്ഥാനാർത്ഥിയാണ് അതിനാൽ ഇപ്പോൾ നമ്മൾ നോക്കുന്നത് d Q വിനുള്ളിലുള്ള ഈ പോയിന്റുകളേക്കാൾ കുറവാണ് അതിനാൽ d Q d R എന്നിവയുടെ മിനിമം ആയിരിക്കട്ടെ അതിനാൽ ഇത് രണ്ടിലും ചെറുതാണ് അതിനാൽ ഈ പ്രത്യേക ഉദാഹരണത്തിൽ d d Qആണ് ഇപ്പോൾ ക്ലെയിം നിങ്ങൾ വേർതിരിച്ച വരിയിൽ നിന്ന് മൈനസ് d അകലെയുള്ള ഈ മേഖല നോക്കുകയാണെങ്കിൽ ഇതിന് പുറത്ത് എനിക്ക് എന്തെങ്കിലും പോയിന്റുണ്ടെങ്കിൽ മറുവശത്ത് എന്തെങ്കിലും പോയിന്റ് നോക്കണമെങ്കിൽ ഇവിടെ നിന്നും ഇവിടേക്കുള്ള ഈ ദൂരം താക്കോലും ഇരുവശത്തുമുള്ള കുറച്ച് ദൂരവും ആയതിനാൽ ഇത് d നേക്കാൾ കൂടുതലാണ് അതിനാൽ ഇത് d Q d R എന്നിവയേക്കാൾ ചെറുതാണ് അതിനാൽ ഇത് ഒരു ചെറിയ സ്ഥാനാർത്ഥിയാകാൻ കഴിയില്ല അതിനാൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഉപയോഗശൂന്യമാണ് ഈ സോണിന് പുറത്തുള്ള ഒരൊറ്റ ജോഡി ഏത് വരിയും തിരയുന്ന ഒരു പോയിന്ററും ഇല്ല കാരണം അത് സോണിന് പുറത്താണെങ്കിൽ അത് വരിയുടെ അപ്പുറത്തുള്ള മറ്റെന്തെങ്കിലുമൊന്നിൽ നിന്ന് കുറഞ്ഞത് b പ്ലസ് എങ്കിലും ആയിരിക്കാം അതിനാൽ സോണിനകത്തും രണ്ട് വശങ്ങളിലുമുള്ള പോയിന്റുകൾ നോക്കിയാൽ മതി അതിനാൽ ഈ പ്ലസ് മൈനസ് d യിലെ ലൈനിലുള്ള സെപ്പറേറ്ററിലുടനീളമുള്ള പോയിന്റുകൾ മാത്രമേ ഞങ്ങൾ പരിഗണിക്കാവൂ ഇതിന് പുറത്തുള്ള ഏത് ജോഡിയും വരിയുടെ ഏറ്റവും അടുത്ത ജോഡിയാകാൻ കഴിയില്ല അതിനാൽ നമുക്ക് സൂക്ഷ്മമായി പരിശോധിക്കാം അതിനാൽ ഇത് എന്റെ പ്ലസ് മൈനസ് ഇവയാണ് നമുക്ക് ഇത് മൈനസ് d ഇത് പ്ലസ് d ഇപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത് d വലുപ്പത്തിലുള്ള 2 ന്റെ സമചതുരങ്ങളായി ഞങ്ങൾ അതിനെ കൂടുതൽ വിഭജിക്കാൻ പോകുന്നു അതിനാൽ എനിക്ക് d 2 ഉം d 2 ഉം 2 ഉം ഉണ്ടായിരുന്നു അതിനാൽ d ഉള്ള ഈ മുഴുവൻ കാര്യങ്ങളും ഞാൻ ഈ ഘട്ടങ്ങളെല്ലാം പരിഗണിക്കാൻ പോകുന്നു അതിനാൽ അത്തരമൊരു ബോക്സിനുള്ളിൽ എനിക്ക് പരമാവധി ഒരു ഘട്ടത്തിൽ കഴിയും എനിക്ക് രണ്ട് പോയിന്റുകൾ ഉണ്ടാകില്ല എന്നതാണ് അവകാശവാദം എന്തുകൊണ്ട് ഒരു ബോക്സിനുള്ളിലെ ഏറ്റവും അകൽച്ച ഡയഗണലിലുടനീളം ഉള്ളതിനാൽ ബോക്സിൽ രണ്ട് പോയിന്റുകൾ ഉണ്ടാകാവുന്ന അടുത്ത ഘട്ടം ഡയഗണലിലേക്ക് 2 n പോയിന്റുകളാണ് പക്ഷേ ഈ വലിപ്പത്തിലുള്ള d യുടെ 2 എന്ന ചതുരത്തിന്റെ ഡയഗണൽ d യുടെ സ്ക്വരെറൂട്ട് 2 ആണ് അതിനാൽ ഇത് ചില പോയിന്റുകൾ 0 അതിനാൽ ഇത് d നേക്കാൾ കുറവാണ് എന്നാൽ ഈ ചതുരം പൂർണ്ണമായും ഒരു വശത്ത് വലത് സമയത്തും ഇടത്തോട്ടോ വലത്തോട്ടോ രണ്ടും ഇടത്തോട്ടും വലത്തോട്ടോ ആണെന്ന് ശ്രദ്ധിക്കുക ഏറ്റവും കുറഞ്ഞ വേർതിരിക്കൽ d ആണെന്ന് നമുക്കറിയാം വരയുടെ ഒരു വശത്ത് പോയിന്റില്ല d എന്നതിനേക്കാൾ രണ്ട് പോയിന്റുകളില്ല കാരണം d എന്നത് d Q d R എന്നിവയുടെ ഏറ്റവും കുറഞ്ഞതാണ് അതിനാൽ ഈ ഓരോ ബോക്സിലും നമുക്ക് പരമാവധി ഒരു പോയിന്റ് ലഭിക്കും ഇപ്പോൾ നമ്മൾ ഏതെങ്കിലും പോയിന്റുകൾ നോക്കാൻ തുടങ്ങും അതിനാൽ ഈ പെട്ടിയിലെ ഒരു പോയിന്റ് നോക്കൂ ഇപ്പോൾ അവകാശവാദം ഞാൻ d എന്ന ദൂരത്തിലായിരിക്കണമെങ്കിൽ നിങ്ങൾക്ക് കഴിയുന്നത്ര ദൂരം അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും ദൂരെയുള്ള പെട്ടിയെക്കുറിച്ച് നിങ്ങൾ ചിന്തിച്ചാൽ എനിക്ക് എത്ര ദൂരം സുഖമായിരിക്കും ആ ബോക്സിലേക്ക് പോകാം അതിനാൽ നിങ്ങൾ കുറച്ചുകൂടി ശ്രദ്ധാലുക്കളായിരിക്കാം പക്ഷേ അത് തീർച്ചയായും ആ ബോക്സിനേക്കാൾ കൂടുതലായിരിക്കില്ല അതിനാൽ ഈ പെട്ടിയിൽ നിന്ന് നിങ്ങൾ പോകേണ്ടിവന്നാൽ അടിസ്ഥാനപരമായി ഞങ്ങൾക്ക് ഈ ദൂരത്തേക്കാൾ കൂടുതൽ പോകേണ്ടിവന്നാൽ അത് d യിൽ കൂടുതൽ ആയിരിക്കും അതിനാൽ ഈ ദൂരപരിധിക്കുള്ളിലെ ഏത് പോയിന്റും അടുത്ത 4 ബൈ 4 സെഗ്മെന്റുകൾക്കുള്ളിൽ ആയിരിക്കണം എന്നതാണ് ക്ലെയിം അതിനാൽ നമ്മൾ ഓരോ പോയിന്റും 15 നോട് താരതമ്യം ചെയ്യേണ്ടതുണ്ട് ഇപ്പോൾ തീർച്ചയായും ഞങ്ങൾ ഇത് താരതമ്യം ചെയ്യും അത് താഴെ നിന്ന് മുകളിലേക്ക് ഒരു സ്കാൻ ചെയ്യും അതിനാൽ ഇതിന് താഴെയുള്ള പോയിന്റുകൾ ഇതിന് ഉണ്ടായിരിക്കാം ഞങ്ങൾ അവയും മുമ്പും പരിഗണിക്കുമ്പോൾ അവർക്ക് വീണ്ടും താരതമ്യം ചെയ്യാം അതിനാൽ ഞങ്ങൾ പരിഗണിക്കും നെറ്റിൽ കാണുന്നതുപോലെ ഈ സ്കാൻ ഈ ക്രമത്തിൽ ഞങ്ങൾ ചെയ്യും അതിനാൽ ചുറ്റുമുള്ള ഈ 16 സ്ക്വയറുകളിലെ പോയിന്റുകൾക്കെതിരെ മാത്രമേ ഞങ്ങൾ ഈ കാര്യം പരിഗണിക്കാവൂ അതിനാൽ അവർക്ക് യഥാർത്ഥത്തിൽ എത്ര പോയിന്റുകളുണ്ട് എന്നതിൽ നിന്ന് സ്വതന്ത്രമായ ഫിക്സ് നമ്പർ അതാണ് അതിനാൽ ഞങ്ങൾ ഇത് ചെയ്യും ഈ വശത്ത് നമുക്ക് Q y ഉണ്ട് ഈ വശത്ത് നമുക്ക് R y ഉണ്ട് എന്നാൽ അവ രണ്ടും അടുക്കിയിരിക്കുന്നു എന്ന് ഓർക്കുക അതിനാൽ ഞങ്ങൾ ഒരു തരത്തിലുള്ള മെർജ് നടത്തും അതിനാൽ ഞങ്ങൾ Q y R y എന്നിവയിലൂടെ കടന്നുപോകും Q y നും R y നും ഇടയിൽ അടുക്കുന്ന ക്രമത്തിൽ അടുത്തത് തിരഞ്ഞെടുക്കും X കോർഡിനേറ്റ് ഓർക്കുന്നുവെങ്കിൽ ഇത് ഒരു x Q ആണ് യഥാർത്ഥത്തിൽ പോയിന്റ് d മൈനസ് d എന്നിവയെ വേർതിരിക്കുന്നു കണ്ടെത്തേണ്ട പോയിന്റിന്റെ x കോർഡിനേറ്റ് x Q d x Q മൈനസ് d എന്നിവയ്ക്കിടയിലാണെങ്കിൽ ഞങ്ങൾ S y എന്ന ലിസ്റ്റിലേക്ക് ചേർക്കും അതിനാൽ S y ഇപ്പോൾ ഈ പാനിനുള്ളിലെ പോയിന്റുകളുടെ പട്ടിക താഴെ നിന്ന് മുകളിലേക്ക് Q y R y എന്നിവയിൽ നിന്ന് ലീനിയർ ലൈനിൽ വേർതിരിച്ചെടുക്കും ഇപ്പോൾ ഈ ലിസ്റ്റിനുള്ളിൽ ഈ ബോക്സുകൾ ഇപ്പോൾ നമ്മളെല്ലാം ഓർഡർ ചെയ്യപ്പെടും അതിനാൽ ഞാൻ അവ സ്കാൻ ചെയ്യുകയാണെങ്കിൽ ഞാൻ ഇവയെല്ലാം കണ്ടെത്തുമെന്ന് ഞാൻ കണ്ടെത്തും അതിനാൽ ഈ 4 ബോക്സുകളിൽ നിന്ന് വരുന്ന 4 പോയിന്റുകൾ ഈ 4 ബോക്സുകളിൽ നിന്ന് 4 എന്നിങ്ങനെ അതിനാൽ ഈ ലിസ്റ്റിലെ അടുത്ത 15 പോയിന്റുകളും ഇവയുമായി മാത്രം താരതമ്യപ്പെടുത്താനും എനിക്ക് തീർച്ചയായും കഴിയും അതിനാൽ ഇത് ലീനിയർ സ്കാൻ ആണ് അതിനാൽ മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ ഞങ്ങൾക്ക് ഈ ഇനിപ്പറയുന്ന അൽഗോരിതം ഉണ്ട് അതിനാൽ ഞങ്ങൾ ഒരു പ്രശ്നം സജ്ജമാക്കിയിട്ടുണ്ടെന്ന് അനുമാനിച്ചാണ് ഞങ്ങൾ ആരംഭിക്കുന്നത് അതിനാൽ ആ P രണ്ട് പകർപ്പുകളായി P x P y എന്നിവ x ഉപയോഗിച്ച് അടുക്കുക y പ്രകാരം അടുക്കുക ഇപ്പോൾ ഞങ്ങൾക്ക് 3 പോയിന്റിൽ കുറവാണെങ്കിൽ 3 പോയിന്റുകൾ കുറവാണെങ്കിൽ ഞങ്ങൾ അത് ബ്രൂട്ട ഫോഴ്സ് ഉപയോഗിച്ച് അവയ്ക്ക് ഏറ്റവും അടുത്ത ജോഡി കണക്കാക്കി ഉത്തരം നൽകുന്നു അതിനാൽ ഉത്തരത്തിൽ ഒരു ജോഡിയിലെ ദൂരം അകലെയുള്ള പോയിന്റുകൾ എന്നിവ അടങ്ങിയിരിക്കുന്നു അത് 3 ൽ കൂടുതലാണെങ്കിൽ ഞങ്ങൾ ഈ ആവർത്തിച്ചുള്ള കാര്യം ചെയ്യുന്നു അതിനാൽ ഞങ്ങൾ P x P y എന്നിവയിൽ നിന്ന് Q x Q y R x R y എന്നിവ നിർമ്മിക്കുന്നു ഇത് നമുക്ക് രേഖീയ സമയം ചെയ്യാൻ കഴിയുമെന്ന് പറയുന്നു തുടർന്ന് ഞങ്ങൾ ഈ പരിഹാരം ആവർത്തിച്ച് പരിഹരിക്കുന്നു Q R എന്നിവയുടെ പ്രശ്നം പരിഹരിക്കുക ഈ രണ്ട് ദൂരങ്ങളും നമുക്ക് ലഭിക്കും d x d R ഇതിൽ നിന്ന് ഞങ്ങൾ d എന്നത് ഏറ്റവും കുറഞ്ഞ d Q d R ആയി എടുക്കും അതിനാൽ ഇത് ഉപയോഗിച്ച് ഞങ്ങൾ ഈ S y ആ സോണിനുള്ളിലെ എല്ലാ പോയിന്റുകളുടെയും ലിസ്റ്റ് സജ്ജീകരിക്കും തുടർന്ന് ആ സോണിനുള്ളിൽ പോയിന്റുകൾ ഏറ്റവും അടുത്ത ദൂരത്തിലുള്ള d S എന്നിവ കണ്ടെത്താൻ ഞങ്ങൾ ആ ലിസ്റ്റ് സ്കാൻ ചെയ്യും ഇപ്പോൾ d S എന്നത് d Q എന്നതിനേക്കാൾ കൂടുതലാണെങ്കിൽ d Q d R പിന്നെ s ഒന്നും സംഭാവന ചെയ്യുന്നില്ല എന്നാൽ അത് കുറവാണെങ്കിൽ ശരിയായ ഉത്തരമായി നൽകുന്നു അതിനാൽ ഈ ദൂരം ഏതാണ് എന്നതിനെ ആശ്രയിച്ച് ഇടത് ഭാഗത്ത് നിന്നുള്ള ഉത്തരമോ വലതുഭാഗത്ത് നിന്നുള്ള ഉത്തരമോ അല്ലെങ്കിൽ ഇടയിലുള്ള മേഖലയിൽ നിന്നുള്ള ഉത്തരമോ d Q ഞങ്ങൾ തിരികെ നൽകും അതിനാൽ നിങ്ങൾ അൽപ്പം കൂടുതൽ പ്രവർത്തിക്കേണ്ട അടിസ്ഥാന അൽഗോരിതം ഇതാണ് യഥാർത്ഥത്തിൽ ശരിയായി കോഡ് ചെയ്യുക എന്നാൽ ഇത് അൽഗോരിത്തിന്റെ മൊത്തത്തിലുള്ള ഘടന നൽകുന്നു അതിനാൽ ഞങ്ങൾക്ക് ഒരു ആവർത്തിക്കാത്ത ഭാഗം ഉണ്ട് അത് ആദ്യം P x P y എന്നിവയുടെ പട്ടിക ക്രമീകരിക്കുക ഇത് n ലോഗ് n ടൈം ഫോഴ്സിൽ ഓർഡർ എടുക്കുന്നു കാരണം ടെക്സ്റ്റ് n ലോഗ് n ടൈം ക്രമീകരിക്കുക തുടർന്ന് ഈ ആവർത്തനവസ്തുവിന്റെ ഒരു സെറ്റ് ഉണ്ടായാൽ മൊത്തത്തിലുള്ള ആവർത്തന പ്രശ്നം n പോയിന്റുകളെ n ന്റെ രണ്ട് സെറ്റുകളായി വിഭജിക്കുന്നു അതിനാൽ നമുക്ക് സുപരിചിതമായ ഒരു കാര്യം ഉണ്ട് അത് n എന്നതിന്റെ 2 മടങ്ങ് T ന്റെ 2 ഉം അതിനുശേഷം എല്ലാ സജ്ജീകരണ സമയവും ഇവയെല്ലാം കൂടിച്ചേരുന്ന സമയവും രേഖീയമായതിനാൽ ലയിപ്പിക്കൽ തരംതിരിക്കാനുള്ള കൃത്യമായ ആവർത്തനമുണ്ട് അതിനാൽ ആവർത്തന ഭാഗവും ഓർഡർ n ലോഗ് n ആയി നൽകുന്നു അതിനാൽ നമുക്ക് ഒരു പ്രാരംഭ സോർട്ടിംഗ് ഘട്ടം ഉണ്ട് n ലോഗ് n ഞങ്ങൾക്ക് ഒരു റിക്കർസീവ് ഭാഗം ഉണ്ട് അത് n ലോഗ് n ആണ് അതിനാൽ മൊത്തത്തിൽ ഈ അൽഗോരിതം n ലോഗ് n ആണ്